സ്വാഗതം ഇത് ഇന്റഗ്രൽ കാൽക്കുലസ് ഡബിൾ ഇന്റഗ്രലുകളിലെ പ്രഭാഷണ നമ്പർ 29 ആണ് പ്രത്യേകിച്ചും ഈ പ്രഭാഷണത്തിലെ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും മുമ്പത്തെ പ്രഭാഷണത്തിൽ നിന്ന് ഓർമിക്കാൻ ഞങ്ങൾ ചില ലളിതമായ ജ്യാമിതിയിലൂടെ കടന്നുപോയി ഉദാഹരണത്തിന് നിങ്ങൾ f ഫംഗ്ഷന്റെ ചതുരാകൃതിയിലുള്ള ഡൊമെയ്ൻ എടുക്കുകയാണെങ്കിൽ ഈ ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ സിംഗിൾ ഇന്റഗ്രലുകൾ 2 പ്രാവശ്യം ആവർത്തിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് വിലയിരുത്താനാകും അതിനാൽ ഒന്നുകിൽ നമുക്ക് ഈ ഫംഗ്ഷനെ ഈ dx ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും ഒപ്പം x ന്റെ ലിമിറ്റ് a മുതൽ b വരെ പോകും അതിനാൽ ആദ്യം x നെ അടിസ്ഥാനമാക്കി സിംഗിൾ ഇന്റഗ്രൽ വിലയിരുത്തുക ഇത് y ന്റെ ഫംഗ്ഷനായിരിക്കും ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനും രണ്ടാമതായി y യുമായി ബന്ധപ്പെടുത്താനും കഴിയും അതിനാൽ y യുടെ ലിമിറ്റ് c മുതൽ d വരെ ആയിരിക്കും നമുക്ക് ഓർഡർ മാറ്റാൻ കഴിയും ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് ആദ്യം y യുമായി ഇന്റഗ്രൽ വിലയിരുത്താൻ കഴിയും ഇവിടെ y ന്റെ ലിമിറ്റ് c മുതൽ d വരെ പോകും അതിനുശേഷം x നെ സംബന്ധിച്ച് സിംഗിൾ ഇന്റഗ്രലിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും കൂടാതെ ലിമിറ്റ് ആ സാഹചര്യത്തിൽ a മുതൽ b വരെ ആയിരിക്കും മറ്റ് ചില ഡൊമെയ്നുകളും ഞങ്ങൾ കണ്ടു ഉദാഹരണത്തിന് ഈ ഡൊമെയ്ൻ y ന്റെ ദിശയിലുള്ള ഫംഗ്ഷനാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു y യുടെ ദിശയിൽ നമുക്ക് x ൽ നിന്നുള്ള ഈ സ്ഥിരമായ ലിമിറ്റുകൾ a മുതൽ x വരെ b ക്ക് തുല്യമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ y യുടെ ദിശയിൽ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ് കൂടാതെ y ന്റെ ലിമിറ്റ് മുതൽ ഈ വരെ ആയിരിക്കും x ന്റെ ലിമിറ്റ് നമുക്ക് a മുതൽ b വരെ ഉണ്ടായിരിക്കും

ഈ സാഹചര്യത്തിൽ ഈ ഡബിൾ ഇന്റഗ്രൽ ആദ്യം ആന്തരികമായിരിക്കും y നെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റുകൾ മുതൽ വരെയായിരിക്കും പിന്നീട് അല്ലെങ്കിൽ അവസാനം നമുക്ക് x മായി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും ലിമിറ്റുകൾ a മുതൽ b വരെയായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഡൊമെയ്ൻ ഉണ്ട് ഈ സാഹചര്യത്തിൽ ആദ്യം x മായി ഇന്റഗ്രേഷൻ പരിഗണിക്കേണ്ടതുണ്ട് കാരണം x ന് ഈ വേരിയബിൾ ലിമിറ്റ് സജ്ജീകരിക്കുന്നത് എളുപ്പമാണ് അതിനാൽ x ന്റെ ലിമിറ്റ് മുതൽ വരെയും രണ്ടാമത്തെ ഘട്ടത്തിൽ y യുമായി ബന്ധപ്പെട്ട് ഇന്റഗ്രേഷൻ നടത്തും ഇവിടെ x നോടനുബന്ധിച്ച് ഈ ആന്തരിക ഇന്റഗ്രൽ നമുക്ക് ലഭിക്കും പരിധികൾ മുതൽ വരെയും പുറംഭാഗത്തിന് c മുതൽ d വരെയുമുള്ള ലിമിറ്റുകൾ ഉണ്ടാകും

ചതുരാകൃതിയിലുള്ള ഡൊമെയ്ൻ ഉള്ളപ്പോൾ നമ്മൾ കണ്ട ഈ ലളിതമായ സന്ദർഭങ്ങളിൽ ആദ്യം x നെ അടിസ്ഥാനമാക്കിയോ y നെ അടിസ്ഥാനമാക്കിയോ കണക്കുകൂട്ടുക എന്നത് പ്രശ്നമല്ല ഇവിടെ ലിമിറ്റുകൾ പരസ്പരം കൈമാറുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ ഞങ്ങൾക്ക് അത്തരം ഒരു ഡൊമെയ്നുകൾ ഉള്ളപ്പോൾ ഉദാഹരണത്തിന് ഈ ചിത്രത്തിലോ മറ്റൊന്നിലോ ആണെങ്കിൽ ഏതാണ് സൌകര്യമെന്ന് നാം കാണണം അതിനാൽ ആദ്യത്തേതിൽ നമ്മൾ ആദ്യം x നോടും പിന്നീട് y നോടും ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ കേസിൽ ആദ്യം x നോടും പിന്നീട് y നോടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ സൌകര്യപ്രദമാണ് ഇവിടെ ഓർഡറിന്റെ സൌകര്യം നമുക്ക് കാണാനാകുന്ന ഒരു സാഹചര്യമാണിത് എന്നാൽ ഇന്റെഗ്രന്റ്നെ ആശ്രയിച്ച് മറ്റ് കാരണങ്ങളുണ്ടാകും ഇന്റഗ്രൽ y യുമായി ബന്ധപ്പെട്ട് സാധ്യമാണോ അല്ലെങ്കിൽ സൌകര്യപ്രദമാണോ അല്ലെങ്കിൽ x നെ സംബന്ധിച്ച് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അത് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യും ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഓർഡർ മാറ്റുന്നത് എന്ന ചോദ്യം ഇവിടെയുണ്ട് ഈ ഉദാഹരണത്തിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാരണം നമുക്ക് x നെ സംബന്ധിച്ചിടത്തോളം ആന്തരിക ഇന്റഗ്രൽ ഉണ്ടെന്നും x ന്റെ ലിമിറ്റുകൾ y ൽ നിന്ന് a ലേക്ക് പോകുന്നുവെന്നും കരുതുക അതിനാൽ x എന്നത് y മുതൽ x വരെ തുല്യമാണ് അത് ആന്തരിക ഇന്റഗ്രലിന്റെ ലിമിറ്റാണ് കൂടാതെ നമുക്ക് y ഉള്ളത് 0 മുതൽ y വരെ a ക്ക് തുല്യമാണ് തന്നിരിക്കുന്ന ക്രമത്തിൽ ആദ്യം x മായി ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ വേർതിരിച്ചറിയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതാണ് ചോദ്യം ഇന്റഗ്രാൻഡിലെ 12 പോലെ ഞങ്ങൾ ഇവിടെ പരിഗണിക്കണം തുടർന്ന് നമുക്ക് ഉണ്ട് ഇത് ഞങ്ങളുടെ ഇന്റെഗ്രന്റ് ആണ് x നെ അടിസ്ഥാനമാക്കി y മുതൽ a വരെയും y നെ അടിസ്ഥാനമാക്കി 0 മുതൽ a വരെയും dx dy ഇന്റഗ്രൽ ഉണ്ട് x നെ സംബന്ധിച്ചിടത്തോളം ഇത് ലോഗരിഥമിക് ഫംഗ്ഷനുകൾ ആയിരിക്കും ഇന്റഗ്രൽ ഇതിന്റെ പകുതിയോടുകൂടിയ നമുക്ക് ഉണ്ടാകും അതിനുശേഷം x ന് y മുതൽ a വരെയും ബാഹ്യം 0 മുതൽ a വരെയും നമുക്ക് ലിമിറ്റുകൾ നൽകണം ഒപ്പം ഉണ്ട് ഇത് y യുടെ ഫംഗ്ഷനായി മാറും ഇപ്പോൾ ഇത് ഒരു ആയിരിക്കും തുടർന്ന് ഇവിടെ നമുക്ക് മൈനസ് ഉം ഉണ്ടാകും അതിനാൽ പോയിന്റ് ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഫംഗ്ഷനുകളെ ഇന്റഗ്രേറ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഇവിടെ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുകയാണെങ്കിൽ ഇത് കണക്കുകൂട്ടാൻ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുകയാണെങ്കിൽ ആദ്യപടി എല്ലായ്പ്പോഴും ഞങ്ങൾ ഇന്റഗ്രേഷന്റെ ഡൊമെയ്ൻ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്കുള്ളത് എന്താണ് നമുക്ക് ഇത് x ആക്സിസ് ആണെന്ന് പറയാം ഇവിടെ നമുക്ക് ഈ y ആക്സിസ് ഉണ്ട് ആന്തരികത്തിന്റെ x ൽ നിന്ന് പോകുന്ന ഈ ലിമിറ്റ് y ന് തുല്യമാണ് ഇവിടെ x എന്നത് y യ്ക്ക് തുല്യമാണ് ഇത് x ൽ നിന്നുള്ള ആന്തരിക ഇന്റഗ്രൽ y ന് തുല്യമായ സ്ഥിരമായ ലിമിറ്റ് a ലേക്ക് പോകുന്നു x y ൽ നിന്ന് a ലേക്ക് പോകുന്നു അതിനാൽ ഞങ്ങൾ ഈ വരിയിൽ നിന്ന് ആരംഭിക്കുന്നു അത് a വരെ പോകുന്നു ഇവിടെ a പോയിന്റ് ഇതാണ് എന്ന് നമുക്ക് പറയാം x എന്നത് a ന് തുല്യമാണ് സ്വാഭാവികമായും ഇതും y ഒരു ബിന്ദുവിന് തുല്യമാണ് ഇവിടെ x എന്ന ലിമിറ്റ് y ൽ നിന്ന് പോകുന്നു അതിനാൽ ഈ പോയിന്റിലേക്കുള്ള x എന്ന വരി a ന് തുല്യമാണ് ഇത് ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇന്റഗ്രേഷന്റെ ഡൊമെയ്നാണ് കൂടാതെ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ക്രമം മാറ്റണമെങ്കിൽ ഈ കണക്ക് ഇപ്പോൾ വളരെ സഹായകരമാകും നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് സ്വാഭാവികമായും ഒരേ ഇന്റെഗ്രന്റ്ണ്ടാകാൻ പോകുന്നു തുടർന്ന് ഇവിടെ dy dx അതിനാൽ ഓർഡർ മാറ്റപ്പെടും ആദ്യം നമ്മൾ ഇവിടെ y യുടെ ലിമിറ്റ് നിശ്ചയിക്കണം y ന്റെ ലിമിറ്റിനായി ഇപ്പോൾ നമ്മൾ y ദിശയിലുള്ള ഒരു വരിയിലൂടെ പോയി അത് എവിടെയാണ് പ്രവേശിക്കുന്നതെന്നും അത് ഡൊമെയ്നിൽ നിന്ന് പുറത്തുപോകുന്നതെങ്ങനെയെന്നും കാണും മുഴുവൻ ഡൊമെയ്നിനെയും ഉൾക്കൊള്ളുന്നതിനായി ഇത് എല്ലായ്പ്പോഴും ഇവിടെ പ്രവേശിക്കുന്നു ഇത് ഈ y യിൽ പ്രവേശിക്കുന്നത് 0 ന് തുല്യമാണ് അതിനാൽ ഇവിടെ ലിമിറ്റ് y എന്നത് 0 ന് തുല്യമായിരിക്കും മാത്രമല്ല ഇത് y ഉള്ള ഈ വരിയിൽ തന്നെ ഡൊമെയ്നിൽ നിന്ന് പുറത്തുപോകുന്നു y x ന് തുല്യമാകുമ്പോൾ y 0 ന് തുല്യവും ഈ y ന് x ന് തുല്യവും x ന്റെ ലിമിറ്റ് 0 ന് തുല്യവും x a ന് തുല്യവുമായിരിക്കും x 0 മുതൽ a വരെ തുല്യമാണ് അതിനാൽ ഈ രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ ലിമിറ്റ് x 0 ൽ നിന്ന് a ആയും y ഈ 0 ൽ നിന്ന് x ആയും മാറ്റി ഇപ്പോൾ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും കാരണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y യെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പമാകും ഇവിടെ x സ്ഥിരമാണ് ഞങ്ങൾക്ക് ടേം ഉണ്ട് നമുക്ക് ഇപ്പോൾ എന്താണ് ഉള്ളത് ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റിയതിന് ശേഷം ഞങ്ങൾക്ക് ഇത് ഉണ്ട് ഈ y 0 മുതൽ x വരെയും x 0 മുതൽ a വരെയും പോകുന്നു അതിനാൽ ആദ്യം ആന്തരികത്തെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പുറത്തെ ഒന്ന് ശരിയാക്കുന്നു x 0 മുതൽ a വരെ ആന്തരികമായവയ്ക്ക് നമുക്ക് ഇപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും നൽകും y യുമായി ബന്ധപ്പെട്ട് നമുക്ക് y ന് 0 മുതൽ x വരെയും ബാഹ്യ ഇന്റഗ്രൽ x നും ലിമിറ്റ് ഉണ്ട് അതിനാൽ ഈ x റദ്ദാക്കപ്പെടും കൂടാതെ ഞങ്ങൾക്ക് ഉണ്ട് അത് 0 മുതൽ a വരെ ആയിരിക്കും അതിനാൽ ഇടുമ്പോൾ മുകളിലെ ലിമിറ്റ് വിപരീതമാക്കുക x 0 തുടർന്ന് ഈ dx നമുക്ക് ഇവിടെ എന്താണ് ഉള്ളത് തുടർന്ന് ഇന്റഗ്രൽ 0 ടു a dx എന്നത് x മാത്രമായിരിക്കും മുകളിലെ ലിമിറ്റ് നമുക്ക് a നൽകും അതിനാൽ അതാണ് ഇന്റഗ്രലിന്റെ മൂല്യം അതിനാൽ ഇന്റഗ്രേഷൻ ക്രമത്തിൽ മാറ്റം വരുത്താതിരുന്നാൽ വളരെ ഉപയോഗപ്രദമായിരുന്നു ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റിക്കൊണ്ട് ഇത് കണക്കുകൂട്ടാൻ നേരിട്ടുള്ള ഇന്റഗ്രൽ ബുദ്ധിമുട്ടായിരുന്നു ഇത് നിസ്സാരമായിത്തീർന്നു കൂടാതെ ഈ ആയി ഞങ്ങൾക്ക് മൂല്യം ലഭിച്ചു അതിനാൽ ഈ ഇന്റഗ്രലിന്റെ മൂല്യം ആണ് അതിനാൽ കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഞങ്ങൾ പരിഗണിക്കുന്നു അതിനാൽ ഈ നെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം കൂടാതെ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തുടർന്ന് ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഇന്റെഗ്രന്റ് xy ആണെങ്കിലും വിലയിരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ആദ്യം y യുമായി ബന്ധപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ x നെ സംബന്ധിച്ച് വ്യത്യാസമുണ്ടോ എന്നത് പ്രശ്നമല്ല സങ്കീർണ്ണത ലെവൽ കൂടുതലോ കുറവോ ആയിരിക്കും അതിനാൽ വീണ്ടും ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുന്നതിന് ഞങ്ങൾ ഇവിടെ ഡൊമെയ്ൻ രേഖപ്പെടുത്തണം അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഉള്ളത് ഞങ്ങൾക്ക് ഈ x അക്ഷം ഉണ്ട് ഞങ്ങൾക്ക് അവിടെ y അക്ഷം ഉണ്ട് ഇപ്പോൾ ഇത് വരയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ y മുതൽ y വരെ ന് തുല്യമാണ് അതിനാൽ y എന്നത് ന് തുല്യമാണ് ഇവിടെ ഈ പരാബോള അതിനാൽ നമുക്ക് y എന്നത് ന് തുല്യമാണ് തുടർന്ന് നമുക്ക് ലൈനുമുണ്ട് നമുക്ക് y എന്ന വരി ന് തുല്യമാണ് അതിനാൽ x 0 ആകുമ്പോൾ y എവിടെയോ 2 ഉം ഈ y 0 ആകുമ്പോൾ x വീണ്ടും 2 ഉം ആയിരിക്കും അതിനാൽ y എന്ന വരി ന് തുല്യമാണ് അതിനാൽ താൽപ്പര്യമുള്ള പ്രദേശം ആകാൻ പോകുന്നത് y ൽ നിന്ന് പോകുന്നതിനാൽ ഈ പരാബോള അതിനാൽ ഇത് ഞങ്ങളുടെ ഇന്റഗ്രേഷൻ മേഖലയാണ് ഇപ്പോൾ നമുക്ക് ഓർഡർ എളുപ്പത്തിൽ മാറ്റാൻ കഴിയും പക്ഷേ ഈ വിഭജന പോയിന്റ് എന്താണെന്ന് നേടുന്നതിന് മുമ്പ് അതിനാൽ ഇവിടെ ന് തുല്യമാണെങ്കിൽ നമുക്ക് ഉണ്ട് അതിനർത്ഥം ഞങ്ങൾക്ക് ഉം ഉണ്ട് അതിനാൽ എന്നിവ 0 ന് തുല്യമാണ് അതിനാൽ നമുക്ക് ഇവിടെ എന്ന പോയിന്റ് ഉണ്ട് അതിനാൽ x 1 ന് തുല്യമാണ് ഇത് x 1 ന് തുല്യമാണ് y ഉം 1 ആയിരിക്കും അതിനാൽ ഇവിടെ ഈ വിഭജനത്തിന്റെ പോയിന്റ് 11 x ന്റെ മൂല്യം 1 ആണ് കൂടാതെ y ന്റെ മൂല്യം 1 ഉം ഈ ഘട്ടത്തിൽ ഇവിടെ y യുടെ മൂല്യം 2 ആണ് അതിനാൽ y 2 ഉം ഇവിടെ x 2 ഉം y 0 ഉം ആയിരിക്കും അതിനാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ മാറ്റാൻ കഴിയുന്ന എല്ലാ കോർഡിനേറ്റുകളും ഉണ്ട് അതിനാൽ ഇത് 0 മുതൽ 1 വരെ ആയിരുന്നു ഇപ്പോൾ നമുക്ക് എന്നീ ഓർഡർ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ x നെ സംബന്ധിച്ചിടത്തോളം ഈ x അക്ഷത്തിന് സമാന്തരമായി ഒരു രേഖ വരയ്ക്കണം അത് എവിടെയാണ് പ്രവേശിക്കുന്നതെന്ന് നോക്കി ഡൊമെയ്ൻ വിടുക അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് എല്ലായ്പ്പോഴും ഈ x വഴി പ്രവേശിക്കുന്നത് പൂജ്യരേഖയ്ക്ക് തുല്യമാണ് അതിനാൽ ഇവിടെ നമുക്ക് x എന്നത് പരിധിയുടെ 0 ന് തുല്യമാണ് അതിനുശേഷം നമുക്ക് ഇവിടെ മുകളിലുള്ള പരിധി ഉണ്ട് ഇത് ഈ വരെ 1 ന് തുല്യമാണ് നമുക്ക് x ന്റെ പരിധി എല്ലായ്പ്പോഴും ഈ x വഴി പ്രവേശിക്കുന്നത് 0 ന് തുല്യമാണ് ഇതിലൂടെ പോകുന്നു y ന് തുല്യമാണ് അതായത് x എന്നത് ന് തുല്യമാണ് അതിനാൽ ഇവിടെ x 0 മുതൽ ഈപരാബോളയിലേക്ക് പോകുന്നു ഇത് y എന്ന പോയിന്റ് വരെ 1 ന് തുല്യമാണ് അതിനാൽ y 0 മുതൽ 1 വരെ പോകുന്നു അതിനാൽ ഈ സമയം വരെ നമുക്ക് ഇത് ഉണ്ട് അതിനുശേഷം നമുക്ക് ഒരു ഭാഗം കൂടി ലഭിക്കും കാരണം y 1 മുതൽ 2 വരെ പോകുമ്പോൾ x ന്റെ പരിധി 0 മുതൽ ഈ വരി വരെ ആയിരിക്കും അതായത് y 1 മുതൽ 2 വരെ പോകുമ്പോൾ നമുക്ക് ഇവിടെ മറ്റൊരു ഭാഗം ഉണ്ടാകും x ന്റെ ലിമിറ്റ് 0 മുതൽ 2 y വരെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ അത് വരിയിൽ നിന്ന് പുറത്തുകടക്കുന്നു അതായത് x ന് 2 y ഉണ്ട് അതിനാൽ ഈ 2 y ഉം ഇന്റെഗ്രന്റ് dx dy ഉം അതിനാൽ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട് y 0 മുതൽ 1 വരെ പോകുന്ന ഒന്ന് അതിനർത്ഥം ഇവിടെ ഈ ഡൊമെയ്ൻ ഈ ഡൊമെയ്നും മറ്റൊന്ന് y 1 മുതൽ y വരെയുള്ള മുകളിലെ ഒന്ന് 1 മുതൽ 2 വരെയും x 0 മുതൽ വരെ പോകുന്നു

അതിനാൽ ഈ ഇന്റഗ്രേഷൻ ക്രമം മാറ്റുന്നതിലൂടെ ഈ രണ്ട് ഇന്റഗ്രലുകളുടെ ഈ അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ട് അതിനാൽ ഇവയെ ഞങ്ങൾ പ്രത്യേകം വിലയിരുത്തും തുടർന്ന് നമുക്ക് ഇന്റഗ്രലിന്റെ മൂല്യം കണ്ടെത്താനാകും അതിനാൽ ഇവിടെ ആദ്യത്തെ ഇന്റഗ്രൽ കണക്കിലെടുക്കുമ്പോൾ y 0 മുതൽ 1 വരെയും x 0 മുതൽ വരെയും പോകുന്നു ആദ്യത്തെ ഇന്റഗ്രലുകൾ അങ്ങനെ 0 മുതൽ 1 വരെയും പിന്നീട് x നെ സംബന്ധിച്ചും അതിനാൽ y x എന്നിവയുമായി ബന്ധപ്പെടുമ്പോൾ ഇത് ആയിരിക്കും കൂടാതെ x ന്റെ ലിമിറ്റ് 0 മുതൽ വരെയാണ് ഇത് ഇവിടെ യാണ് അതിനാൽ 0 മുതൽ 1 വരെ നമുക്ക് നൽകുമ്പോൾ കൊണ്ട് y ഉണ്ട് അതിനാൽ ഞങ്ങൾക്ക് y ഉം ഈ ഉം ഉണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് ഇത് ആയിരിക്കും ലിമിറ്റ് 1 ഇടുകയാണെങ്കിൽ അത് 1 ആയിരിക്കും അതിനാൽ നമുക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്നു അതിനാൽ ആദ്യത്തെ ഇന്റഗ്രലിന്റെ മൂല്യം ആണ് തുടർന്ന് നമുക്ക് രണ്ടാമത്തെ ഇന്റഗ്രൽ വീണ്ടും വിലയിരുത്താം അതിനാൽ ഇവിടെ നമുക്ക് 1 മുതൽ 2 വരെയും രണ്ടാമത്തെ ഇന്റഗ്രൽ x 0 മുതൽ 2 y വരെയുമാണ് അതിനാൽ x ഇപ്പോൾ ഉം ലിമിറ്റുകൾ 0 മുതൽ 2 y ഉം ആയിരിക്കും തുടർന്ന് നമുക്ക് ഉണ്ട് അതിനാൽ ഇത് 1 മുതൽ 2 വരെ നമുക്ക് ഉണ്ട് തുടർന്ന് അതിനാൽ തുടർന്ന് മൈനസ് 0 അതിനാൽ ഞങ്ങൾക്ക് ഈ മുണ്ട് അതിനാൽ ഉം ഇത് 1 മുതൽ 2 വരെയും അതിനാൽ നമ്മൾ ഇവിടെ ഗുണിക്കണം അതിനാൽ ഞങ്ങൾക്ക് ഈ ലഭിക്കും ഇപ്പോൾ നമുക്ക് ഈ 4y എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും ഇത് ആണ് അതിനുശേഷം നമുക്ക് ഈ ടേമും ഈ ഉം ഉണ്ട് ഈ വിലയിരുത്തൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇത് ആയിരിക്കും അതിനാൽ നമ്മൾ ഇവിടെ ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനെക്കാൾ ഈ ചേർത്താൽ അത് ആയി മാറും അതിനാൽ ഈ ഇന്റഗ്രലിന്റെ മൂല്യം ആണ് കൂടാതെ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുക എന്ന ആശയം ഞങ്ങൾ വീണ്ടും ഉപയോഗിച്ചു ഈ സാഹചര്യത്തിൽ അത് ആവശ്യമില്ല ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുന്നതിലൂടെ കൂടുതൽ സങ്കീർണ്ണമാണ് കാരണം നമ്മൾ ഇപ്പോൾ രണ്ട് ഡൊമെയ്നുകൾ പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് y മുതൽ 1 വരെയും മറ്റൊന്ന് 1 മുതൽ 2 വരെയും ആയിരുന്നു അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ വാസ്തവത്തിൽ ക്രമം മാറ്റേണ്ടത് തികച്ചും ആവശ്യമില്ലായിരുന്നു നേരിട്ടുള്ള വിലയിരുത്തൽ എളുപ്പമാകുമായിരുന്നു എന്നാൽ ഇന്റഗ്രേഷന്റെ ക്രമം എങ്ങനെ മാറ്റാമെന്ന് മനസിലാക്കാം ഇപ്പോൾ ഇത് പ്രശ്ന നമ്പർ 2 ആണ് ഇവിടെ ഞങ്ങൾ വീണ്ടും ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുകയും വിലയിരുത്തുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഇന്റഗ്രേഷന്റെ ക്രമത്തിന്റെ മാറ്റം അത്യാവശ്യമാണ് കാരണം x നെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പരിഗണിക്കുകയാണെങ്കിൽ x മായി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഈ ഇന്റെഗ്രന്റ് വളരെ സങ്കീർണ്ണമാണ് പക്ഷേ നിങ്ങൾ ഓർഡർ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ dy ഉണ്ടായിരിക്കും ആദ്യം ഞങ്ങൾ dy യുമായി ഇന്റഗ്രേറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ y മാത്രമേയുള്ളൂ അതിനാൽ ക്രമം മാറ്റുന്നതിലൂടെ ഇന്റഗ്രൻന്റ് നേരിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ തന്നിരിക്കുന്ന ഇന്റഗ്രൻന്റ് y അടിസ്ഥാനമാക്കി നമുക്ക് എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ക്രമം മാറ്റുന്നതിനായി ഞങ്ങൾ ഇപ്പോൾ ഈ ഇന്റഗ്രേഷന്റെ ക്രമം അല്ലെങ്കിൽ ഈ ഇന്റഗ്രേഷന്റെ ഡൊമെയ്ൻ വരയ്ക്കണം അതിനാൽ നമുക്ക് ഇവിടെ x അക്ഷം y അക്ഷവും ഉണ്ട് x 0 ൽ നിന്നും പോകുന്നു അതിനാൽ x 0 മുതൽ ഈ സ്ഥാനത്തേക്ക് പോകുന്നു അതിനാൽ ഇത് എന്താണ് ന് തുല്യമാണ് അതിനാൽ ഞങ്ങൾ ഇത് കൊണ്ടുവന്ന് മുഴുവൻ ചതുരവും എടുക്കുകയാണെങ്കിൽ ഇത് ആയിരിക്കും ഇത് ആണെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ നമുക്ക് ആദ്യം വരയ്ക്കാൻ കഴിയുന്ന വൃത്തമാണിത് അതിനാൽ x a ന് തുല്യമാണ് അതിനാൽ ഇതാണ് കേന്ദ്രം a 0 കേന്ദ്രം a വീണ്ടും ആരം അതിനാൽ ഇത് ഇവിടെ എവിടെയോ ആയിരിക്കും അതിനാൽ നമുക്ക് ആരം a ന്റെ വൃത്തമുണ്ട് ഇപ്പോൾ ഇന്റഗ്രൽ ലിമിറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ x 0 മുതൽ സർക്കിളിലേക്ക് പോകുന്നു അത് കൃത്യമായി y ന്റെ ദിശയിലേക്കും പോകുന്നു ഇത് സർക്കിളിന്റെ ആരം a എന്നതിന് തുല്യമാണ് അതിനാൽ ഇത് ഇവിടെ ചെറിയ പ്രദേശമാണ് അതിന്റെ ക്രമമാണ് ഈ സംയോജനത്തിന്റെ മേഖല അതിനാൽ ഈ മേഖലയാണ് ക്രമം ഇത് ഈ യുടെ ഇന്റഗ്രേഷന്റെ മേഖലയാണ് ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ഇപ്പോൾ കാണേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ഓർഡർ മാറ്റുകയാണെങ്കിൽ ആദ്യം നമ്മൾ യുടെ ലിമിറ്റ് നിശ്ചയിക്കണം അതിനാൽ ഇന്റെഗ്രന്റ് അതേപടി നിലനിൽക്കുകയും പിന്നീട് dx ഉപയോഗിച്ച് തുടരുകയും ചെയ്യും അതിനാൽ y നായി മാറുന്നതിലൂടെ നമ്മൾ ഇപ്പോൾ y അക്ഷത്തിന് സമാന്തരമായി ഒരു രേഖ വരയ്ക്കുകയും അത് ഡൊമെയ്നിൽ പ്രവേശിക്കുന്നതും എവിടെ നിന്ന് ഡൊമെയ്നിൽ നിന്ന് പുറത്തുകടക്കുകയും ചെയ്യുന്നുവെന്ന് കാണേണ്ടതുണ്ട് അതിനാൽ y നായി ഇത് ഇപ്പോൾ ഏത് സമയത്തും സർക്കിളിലൂടെ മുഴുവൻ ഡൊമെയ്നിലും പ്രവേശിക്കുന്നു അതിനാൽ ഇവിടെ എന്താണ് ചോദ്യം അതിനാൽ അത് y ആയിരിക്കും അത് y ന്റെ താഴത്തെ ലിമിറ്റാണ് കൂടാതെ ഇത് y ൽ നിന്ന് നിലനിൽക്കുന്നത് a ന് തുല്യമാണ് അതിനാൽ ഇത് y ഒരു മുകളിലെ ബിന്ദുവിന് തുല്യമാണ് ഇപ്പോൾ x ദിശയിൽ ഇത് നിശ്ചയിച്ചിരിക്കുന്നത് x ൽ നിന്ന് 0 ഉം x ന് a ഉം തുല്യമാണ് കാരണം ഈ വരികൾ x ൽ നിന്ന് നീങ്ങുന്നത് 0 മുതൽ x വരെ a ന് തുല്യമാണ് അതിനാൽ അതാണ് ഇന്റഗ്രലിന്റെ ബാഹ്യ ലിമിറ്റ് അതിനാൽ ഞങ്ങൾ ഇവിടെ ക്രമം എളുപ്പത്തിൽ മാറ്റി ഇപ്പോൾ ആന്തരികം y ൽ നിന്ന് മുതൽ y വരെ തുല്യമാണ് a തുല്യമായത് x ൽ നിന്ന് 0 മുതൽ x വരെ x aക്ക് തുല്യമാണ്

അതിനാൽ ആന്തരികമായി y അടിസ്ഥാനമാക്കി നമുക്ക് ഇത് ഉണ്ട് തുടർന്ന് x അടിസ്ഥാനമാക്കിയും അതിനാൽ ഇപ്പോൾ നമുക്ക് ആന്തരികത്തെ എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഇത് y അടിസ്ഥാനമാക്കിയാൽ നമുക്ക് അവിടെ y സ്ക്വയർ പദം മാത്രമേ ഉണ്ടാകൂ അതിനാൽ ബാഹ്യ ഇന്റഗ്രൽ 0 മുതൽ a വരെ ആയിരിക്കും തുടർന്ന് ഞാൻ y വിടുകയാണെങ്കിൽ ഇന്റഗ്രന്റ് ആയിരിക്കും അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് അതിനാൽ ഇപ്പോൾ ന് ലിമിറ്റ് നൽകുക അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് അതിനാൽ റദ്ദാക്കപ്പെടും അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ട് ഇത് മുഴുവനും ഇതുപയോഗിച്ച് പുറത്തുപോകും അതിനാൽ ഈ ഇന്റഗ്രൽ ആന്തരിക ഇന്റഗ്രലിന്റെ ഫലമാണ് ഇപ്പോൾ നമുക്ക് ബാഹ്യ ഇന്റഗ്രൽ വിലയിരുത്താനും കഴിയും

അതിനാൽ ഇത് ആയിരിക്കും ഇത് ഈ ഇന്റഗ്രലിന്റെ മൂല്യമാണ് ഇപ്പോൾ ഈ പ്രശ്നം ഇന്റഗ്രേഷൻ ന്റെ ക്രമം മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ കേസിൽ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുന്നതിന് വീണ്ടും നമുക്ക് പ്രദേശം വേഗത്തിൽ വരയ്ക്കാം കൂടാതെ നമുക്ക് ഈ x ഇവിടെയുണ്ട് നമുക്ക് y ഉണ്ട് അതിനാൽ y എന്നത് x ൽ നിന്ന് y ലേക്ക് ന് തുല്യമാണ് അത് ആണ് അതിനാൽ നമുക്ക് ഈ വരിയുള്ള പരാബോളയുണ്ട് അതിനാൽ y x ലൈനിന് തുല്യമാണ് y എന്നത് x ലൈനിന് തുല്യമാണ് നമുക്ക് ഈ y ന് തുല്യമാണ് x പരാബോളയ്ക്ക് തുല്യമാണ് അതിനാൽ ആദ്യം 0 ന് തുല്യമാണ് അതിനാൽ x അതിനാൽ ഈ പരാബോളയ്ക്ക് ഇത് ഉണ്ടാകും അതിനാൽ ഇത് ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ y വരിയിൽ നിന്ന് പരാബോളയിലേക്ക് പോകുന്നു അതിനാൽ ഇത് ഇന്റഗ്രേഷന്റെ തന്നിരിക്കുന്ന ക്രമമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഓർഡർ മാറ്റാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും അവിടെ നമുക്ക് dx dy എന്നിവ ഉണ്ടാകും അതിനാൽ നമ്മൾ ആദ്യം x ന്റെ ലിമിറ്റ് ശരിയാക്കും അതിനാൽ x ന് സമാന്തരമായി ഈ ദിശയിൽ ഒരു രേഖ വരയ്ക്കേണ്ടതുണ്ട് അത് ഡൊമെയ്നിൽ പ്രവേശിക്കുന്നിടത്തും അത് ഡൊമെയ്നിൽ നിന്ന് പുറത്തുകടക്കുന്നിടത്തും ഞങ്ങൾ അവിടെ കണ്ടു അതിനാൽ ഇവിടെ എൻട്രി പോയിന്റ് വീണ്ടും പരാബോളയാണ് അതിനാൽ x എന്നത് ലിമിറ്റ് x മുതൽ വരെ ആയിരിക്കും ഇത് x y എന്ന ഡൊമെയ്നിൽ നിന്ന് പുറത്തുപോകുന്നു അതിനാൽ ഈ പോയിന്റാണ് 11 പോയിന്റും ഇപ്പോൾ ഈ y യുടെ ദിശയും അതിനാൽ അത്തരം വരികൾ y ൽ നിന്ന് 0 മുതൽ y വരെ 1 ന് തുല്യമാണ് അതാണ് ഇന്റഗ്രേഷൻ ക്രമത്തിന്റെ മാറ്റം y ന്റെ ലിമിറ്റ് 0 മുതൽ 1 വരെയും x ന്റെ ലിമിറ്റ് മുതൽ y വരെയും ഉം ആയിരിക്കും ഈ പ്രഭാഷണത്തിന്റെ അവസാന ഉദാഹരണമായ ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ നമുക്ക് വീണ്ടും ഇന്റഗ്രേഷൻ ക്രമം മാറ്റാൻ താൽപ്പര്യമുണ്ട് ഒപ്പം y യ്ക്കുള്ള ഞങ്ങളുടെ ലിമിറ്റ് x സ്ക്വയറിൽ നിന്ന് ഈ 4 a മുതൽ 3 a മൈനസ് x വരെ പോകുന്നു അതിനാൽ വീണ്ടും ഇവിടെ പ്രദേശം വരയ്ക്കേണ്ടതുണ്ട് x അക്ഷം തുടർന്ന് നമുക്ക് ഇവിടെ y അക്ഷം ഉണ്ട് അതിനാൽ ഈ y x സ്ക്വയറിൽ നിന്ന് 4 a y ന് മുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ x സ്ക്വയർ 4 a y ന് തുല്യമാണ് തുടർന്ന് നമുക്ക് y ന്റെ മുകളിലെ ലിമിറ്റ് 3 a മൈനസ് x ആണ് അതിനാൽ ഇതാണ് ഇവിടെയുള്ള വരി അതിനാൽ ആദ്യം ഈ വരി വരയ്ക്കാം അത് x 0 ആയിരിക്കും അതിനാൽ നമുക്ക് ഇവിടെ y പോയിന്റ് ഉണ്ട് ഇവിടെ 3 a പോയിന്റിന് തുല്യമാണ് Y 0 ആയിരിക്കുമ്പോൾ x 3a ആണ് അതിനാൽ ഇവിടെ x 3a ന് തുല്യമാണ് അതിനാൽ ഇതാണ് ലൈൻ ഇപ്പോൾ നമുക്ക് ഈ x സ്ക്വയർ ന് തുല്യമാണ് അതിനാൽ അതാണ് പരാബോള ഇപ്പോൾ ഇവിടെ y ന്റെ ലിമിറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ പരാബോളയിൽ നിന്ന് വരിയിലേക്ക് y പോകുന്നു അതിനാൽ പരാബോളയിൽ നിന്ന് വരിയിലേക്കുള്ള y യുടെ ദിശയാണിത് ഇപ്പോൾ ഞങ്ങൾ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റാൻ ആഗ്രഹിക്കുന്നു അതായത് x ന്റെ ദിശയിൽ x അക്ഷത്തിന് സമാന്തരമായി ഒരു വര വരയ്ക്കണം വീണ്ടും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സാഹചര്യമുണ്ട് ഇവിടെ ഈ പ്രശ്നം കാരണം രണ്ട് ഡൊമെയ്നുകൾ ഉണ്ടാകും ഈ വരിക്ക് മുമ്പ് ഇവിടെ താഴത്തെ ഡൊമെയ്നിലെ ഈ ഡൊമെയ്നിൽ ഞങ്ങൾക്ക് കൃത്യമായി x ൽ എൻട്രി പോയിന്റ് 0 ന് തുല്യമാണ് പക്ഷേ എക്സിറ്റ് പരാബോളയാണ് ഇവിടെ ഈ ഡൊമെയ്നിന്റെ മുകൾഭാഗത്ത് ഞങ്ങൾക്ക് ഈ എൻട്രി പോയിൻറ് ഉണ്ട് ഈ x 0 ന് തുല്യമാണ് പക്ഷേ ഇവിടെയുള്ള എക്സിറ്റ് പോയിൻറ് വീണ്ടും ഈ വരിയാണ് അതിനാൽ സംയോജനത്തിന്റെ ക്രമം മാറ്റണമെങ്കിൽ രണ്ട് വ്യത്യസ്ത മേഖലകളുണ്ട് അതിനാൽ ഈ ആദ്യ ഭാഗത്തിനായി നമുക്ക് ഇപ്പോൾ dx dy ലഭിക്കാൻ ആഗ്രഹമുണ്ട് അതിനാൽ ഇവിടെ x ന് x 0ൽ നിന്ന് പോകുന്നു പരാബോളയിലേക്കും പോകുന്നു അല്ലെങ്കിൽ സ്ക്വയറായ ലേക്ക് ഈ തുടർന്ന് ഈ സാഹചര്യത്തിൽ ഇവിടെ 2a 0 ആയി വരുന്ന ഈ പോയിന്റ് എന്താണെന്നും കാണേണ്ടതുണ്ട് അതിനാൽ 2a യിലേക്ക് a അതിനാൽ ഈ xy വരെ a ന് തുല്യമാണ് അതിനാൽ 0 മുതൽ y വരെ a ന് തുല്യമാണ് തുടർന്ന് പ്ലസ് a മുതൽ 3a വരെ അതിനാൽ y ഇപ്പോൾ a മുതൽ 3a വരെ തുല്യമാണ് കാരണം ഈ x ന്റെ ശ്രേണി ഈ വരി മുതൽ ആ വരി വരെയാണ് അതിനാൽ ഇവിടെ x വീണ്ടും 0 ൽ നിന്ന് പോകുന്നു y ആയിരുന്ന ഈ വരി 3a x ന് തുല്യമാണ് അതിനർത്ഥം x ഇവിടെ 3a y ആണ് അതിനുശേഷം നമുക്ക് ഈ f x y dx dy എന്നിവയുണ്ട് അതിനാൽ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുന്നതിനുള്ള ക്രമം ഇതാണ് ഞങ്ങൾക്ക് ഈ രണ്ട് ഇന്റഗ്രലുകൾ ലഭിച്ചു കാരണം ഇപ്പോൾ ഡൊമെയ്നെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കേണ്ടതുണ്ട് കാരണം ഈ x അക്ഷത്തിന് സമാന്തരമായ ഈ വരി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിന്തുടരുന്നില്ല എന്നാൽ ഇതിൽ ഈ x ൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന താഴ്ന്ന ഡൊമെയ്ൻ ഈ പരാബോള 0 ന് തുല്യമാണ് അതേസമയം മുകളിലുള്ള ഡൊമെയ്നിൽ y a നേക്കാൾ വലുതാണെങ്കിൽ അത് x ൽ വീണ്ടും പ്രവേശിക്കുന്ന സാഹചര്യം 0 ന് തുല്യമാണ് പക്ഷേ ഇത് ഇപ്പോൾ വരി y നിന്ന് പുറത്തുകടക്കും ഈ വരി y ന് തുല്യമാണ് അതിനാലാണ് ഞങ്ങൾ ഇന്റഗ്രലിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കേണ്ടത് അതിനാൽ ഞങ്ങൾ ഇതിനകം ഇവിടെ നിന്ന് a മുതൽ 3a വരെയും 0 മുതൽ വരെയും എഴുതിയ ഫലമാണിത്

ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുമ്പോൾ എന്താണ് പ്രധാനമെന്ന് സംഗ്രഹിക്കാം ഒന്നാമതായി പല സാഹചര്യങ്ങളിലും ഇത് വളരെ ഉപയോഗപ്രദമാണ് തന്നിരിക്കുന്ന ഇന്റെഗ്രന്റ് ആ ക്രമത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു അതിനാൽ ഇന്റഗ്രേഷന്റെ ക്രമം മാറ്റുന്നതിലൂടെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എളുപ്പമാകും പക്ഷേ അതിനായി ഇന്റഗ്രേഷന്റെ പ്രദേശത്തിന്റെ സ്കെച്ചിംഗ് വളരെ പ്രധാനമാണ് തുടർന്ന് ഡൊമെയ്ൻ സ്കെച്ച് ചെയ്തതിനുശേഷം ഇന്റഗ്രേഷന്റെ ലിമിറ്റ് നിർത്തുന്നത് വളരെ എളുപ്പമാകും പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച റഫറൻസുകളാണിത് വളരെയധികം നന്ദി